ഏവർക്കും നമസ്കാരം തേർഡ് മൊഡ്യൂൾ ആരംഭിക്കുകയാണ് ആദ്യത്തെ രണ്ട് മൊഡ്യൂളുകളിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൻറെ എന്നിവ ചർച്ച ചെയ്തു ഭൂരിഭാഗം എൻട്രികളും എങ്ങനെ രേഖപ്പെടുത്തും എന്ന് നമ്മൾ കണ്ടു പ്രധാനമായ അഞ്ചു എൻട്രികളെ കുറിച്ചു ചർച്ച ചെയ്തു മൊഡ്യൂൾ 2 ൽ ബാലൻസ് ഷീറ്റിനെ പഠിക്കുക കാരണം ഇതു ഒരു തിയറി മാത്രമല്ല ഫിനാൻഷ്യൽ സ്റ്റേറ്റുമെന്റിൽ പറഞ്ഞിട്ടുള്ളതിനെ വായിച്ചു മനസ്സിലാക്കുക ഞങ്ങൾ പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ദയവായി ഇത് ഞങ്ങളുടെ ചർച്ചാ ഫോറത്തിൽ ഇടുക നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ് ക്ലാസിലെ മറ്റ് അംഗങ്ങളുമായും നിങ്ങൾക്ക് ചർച്ച ചെയ്യാം ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3 ലേക്ക് കടക്കുന്നു അതായത് ഡിപ്രീസിയേഷനെ ഭാഗത്തും നമ്മൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ മൊഡ്യൂൾ 3 ൽ നമ്മൾ രണ്ട് പ്രധാന കാര്യങ്ങൾ ചർച്ചചെയ്യാൻ പോകുന്നു ഒന്ന് ഡിപ്രീസിയേഷൻ മറ്റൊന്ന് ഇൻവെന്ററിയുടെ മൂല്യനിർണ്ണയമാണ് കാരണം ഇവ രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൌണ്ടിലും ബാലൻസ് ഷീറ്റിലും വളരെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷനിൽ നിന്നും ആരംഭിക്കാം ഡിപ്രീസിയേഷൻ എന്നതു കൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് നിങ്ങളിൽ പലർക്കും ഇതു നേരത്തെ അറിഞ്ഞിരിക്കാം ഡിപ്രീസിയേഷനെ കുറിച്ച് ഇതിനു മുൻപും നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഈ മൊഡ്യൂൾ ആരംഭിക്കുമ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും ചർച്ച ചെയ്യുന്നതാണ് അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺസെർവറ്റിസം അതിനു ശേഷം ഡിപ്രീസിയേഷനിലേക്കു കടക്കാം എന്താണ് കൺസെപ്റ് ഓഫ് കോൺസെർവറ്റിസം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉറപ്പായും സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിൽ ലാഭം രേഖപ്പടുത്തുകയില്ല മറിച്ച് നഷ്ടത്തിന് നേരിയ സാധ്യതയുണ്ടാകുമ്പോഴെല്ലാം നഷ്ടം രേഖപ്പെടുത്തേണ്ടതാണ് പ്രത്യേക നിബന്ധനകളിൽ പറയുകയാണെങ്കിൽ ഒരു അക്കൌണ്ടൻറ് ഏതൊരു വരുമാനവും മുൻകൂട്ടി കണക്കാക്കാൻ പാടില്ല മറിച്ചു സാധ്യമായ എല്ലാ നഷ്ടങ്ങളും കണക്കാക്കേണ്ടതാണ് അതിനാൽ ഈ ആശയം അനുസരിച്ച് യഥാർഥ്യമാകാത്ത നേട്ടം ഒരു കാരണവശാലും കണക്കുകളിൽ ഉൾപ്പടുത്തുന്നില്ലായെന്നു ഉറപ്പു വരുത്തേണ്ടതാണ് പക്ഷേ സാധ്യമായ എല്ലാ നഷ്ടങ്ങൾക്കും ജാഗ്രത പാലിക്കേണ്ടതുമാണ് അതിനാൽ ആസ്തികളുടെ ഇതര മൂല്യങ്ങൾ ലഭ്യമാകുമ്പോൾ അക്കൌണ്ടന്റുമാർ കുറഞ്ഞ മൂല്യത്തിലേക്ക് നയിക്കുന്ന ഒന്നിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനാൽ ഒരു അസറ്റിന് രണ്ട് മൂല്യങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഒരു രീതി അനുസരിച്ച് മൂല്യം 50000 എന്നും മറ്റ് രീതി അനുസരിച്ച് ഇത് 45000 ആണെന്നും കരുതുക ഇപ്പോൾ സുരക്ഷിതമായ ഭാഗത്ത് തുടരാൻ കൺസെപ്റ് ഓഫ് കോൺസെർവറ്റിസം അനുസരിച്ച് ആസ്തിയുടെ മൂല്യം 45000 എന്ന് വിലമതിക്കാം കാരണം അമിതമായ മൂല്യം കാണിക്കുന്നതിനുപകരം സുരക്ഷിതമായിരിക്കുന്നതാണ് നല്ലത് ബാലൻസ് ഷീറ്റിൽ മൂല്യം വർധിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അത് അല്പം കുറവാണെങ്കിൽ സാരമില്ല കൺസെപ്റ് ഓഫ് കോൺസെർവറ്റിസത്തിനു മൂന്ന് പ്രധാന ഗുണപരമായ സവിശേഷതകളുണ്ട് ആദ്യത്തേത് പ്രുഡൻസ് ഏതൊക്കെ നഷ്ടമാണ് മറ്റും ഏതൊക്കെ നിശ്ചയമില്ലാത്ത നേട്ടമാണ് കണക്കാക്കേണ്ടതെന്നും നിർണ്ണയിക്കേണ്ടത് ആവശ്യമാണ് അതിനാൽ ഒരു ചെറിയ നഷ്ടസാധ്യതയുണ്ടെങ്കിലും അതു നമ്മൾ കണക്കാക്കുന്നു നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ചർച്ചചെയ്യുമ്പോൾ പ്രൊവിഷൻ ചർച്ചചെയ്തു അതിനാൽ നഷ്ടസാധ്യത ഉള്ളപ്പോഴെല്ലാം ഏന്നാൽ നഷ്ടം സംഭവിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല പക്ഷേ ഒരു നഷ്ടമുണ്ടാകാനുള്ള അവസരമുണ്ട് എന്ന് തോന്നിയാൽ നമ്മൾ നഷ്ടം കണക്കാക്കുന്നതിനായി ഒരു പ്രൊവിഷൻ ഉണ്ടാക്കി അത് ഒരു ലയബിളിറ്റിയായി ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും ചെയ്യുന്നു എന്നാൽ ചില നേട്ടങ്ങൾ ഉണ്ടാകാമെന്ന സാധ്യത ഉണ്ടെങ്കിലും അത് കണക്കാക്കില്ല ഇതാണ് പ്രുഡൻസ് എന്നതിൻ്റെ ഗുണപരമായ സ്വഭാവം രണ്ടാമത്തേത് ന്യൂട്രാലിറ്റി പാലിക്കണം അക്കൌണ്ടന്റിന് പക്ഷപാതപരമായ വീക്ഷണം ഉണ്ടായിരിക്കുകയും നഷ്ടം സംഭവിക്കാനുള്ള ചെറിയ സാധ്യതകൾ തിരിച്ചറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതേസമയം നമ്മൾ രേഖപ്പെടുത്തുന്ന ലാഭമോ നേട്ടങ്ങളോ എന്തായാലും നൂറു ശതമാനം ഉറപ്പുണ്ടായിരിക്കണം സാധ്യമായ ഏതൊരു അനിശ്ചിത നേട്ടവും ഒഴിവാക്കണം മൂന്നാമത്തേത് ഇതര മൂല്യങ്ങളുടെ വിശ്വസ്ത പ്രാതിനിധ്യമാണ് അതിനാൽ അക്കൌണ്ടന്റ് ബാലൻസ് ഷീറ്റിൽ ഒരു ഇനം റെക്കോർഡു ചെയ്യുമ്പോഴോ കാണിക്കുമ്പോഴോ ആദ്യം സാധ്യമായ എല്ലാ മൂല്യങ്ങളും വിശ്വസ്തതയോടെ തിരിച്ചറിയുകയും തുടർന്ന് അസറ്റ് റെക്കോർഡു ചെയ്യുമ്പോൾ കുറഞ്ഞ മൂല്യം എടുക്കുകയും ചെയ്യണം ഇതു ബാലൻസ് ഷീറ്റിൽ ലയബിളിറ്റിയുടെ ഭാഗത്തു നമ്മൾ റെക്കോർഡു ചെയ്യുകയും സാധ്യമായ എല്ലാ നഷ്ടങ്ങൾക്കും പ്രൊവിഷൻ സൃഷ്ടിക്കുകയും ചെയ്യും ഒരു നഷ്ടം കണക്കാക്കുമ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ്സ് സ്റ്റേറ്റുമെന്റിലും ബാലൻസ് ഷീറ്റിലും സ്വയമേവ രേഖപ്പെടുത്തുന്നതാണ് അതിനാൽ ഒരു പരിധി വരെ ലാഭത്തിൻറെ മതിപ്പു കുറച്ചു കാട്ടി ഒരു അനിശ്ചിത നേട്ടം മൂലം ലാഭത്തിൻറെ മതിപ്പു കൂടാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്നു വിചാരിക്കുന്നു നിരവധി അക്കൌണ്ടിംഗ് പ്രക്രിയകൾക്കു ഒരു മൂലമാകുന്നതിനാൽ കൺസെപ്റ് ഓഫ് കോൺസെർവറ്റിസം വളരെ പ്രധാനപെട്ടതാണ് രണ്ട് പ്രധാന ഉദാഹരണങ്ങൾ സ്ക്രീനിൽ ഉണ്ട് ബാലൻസ് ഷീറ്റിൽ ഇൻവെന്ററിക്ക് ഒരു കുറിപ്പിട്ട വിലയുണ്ടാവും ഇൻവെന്ററിയുടെ വില 10000 വും മാർക്കറ്റ് വാല്യൂ 12000 വും ആണെങ്കിൽ അതായത് വിലയേക്കാൾ മാർക്കറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ യഥാർത്ഥ ലാഭമല്ലാത്ത 2000 രൂപ നമ്മൾ രേഖപ്പെടുത്തേണ്ടതില്ല എന്തെന്നാൽ നമ്മൾ അതു ഇനിയും വിറ്റിട്ടില്ല ഇൻവെന്ററിയുടെ മാർക്കറ്റ് വാല്യൂ 12000 ആണെങ്കിലുംഅതിൻ്റെ വിലയായ 10000 തന്നെ കാണിക്കും എന്നിരുന്നാലും ചെലവ് 10000 ആണെന്ന് കരുതുക പക്ഷേ മാർക്കറ്റ് വാല്യൂ 9000 ആയി കുറയുന്നു അപ്പോൾ 1000 നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമ്മൾ ഇതുവരെ സ്റ്റോക്ക് 9000 ന് വിറ്റിട്ടില്ല പക്ഷേ അതിന്റെ മാർക്കറ്റ് വാല്യൂ 9000 ആയി കുറഞ്ഞു അത്തരം സാഹചര്യങ്ങളിൽ 9000 രേഖപ്പെടുത്തുന്നു അതിനാൽ സംഭവിക്കാൻ സാധ്യതയുള്ള നഷ്ടം നമ്മൾ രേഖപ്പെടുത്തും അതുകൊണ്ടാണ് സ്റ്റോക്കിന്റെ വില അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഇവയിൽ ഏതാണോ കുറവ് അതാണ് വിലമതിക്കേണ്ടത് ഇന്നത്തെ സെഷനുശേഷം വാലുവേഷൻ ഓഫ് ഇൻവെന്ററിയുടെ വിശദാംശങ്ങൾ നമ്മൾ നോക്കാം പക്ഷേ ഇപ്പോൾ ഇത് കൺസെപ്റ് ഓഫ് കോൺസെർവറ്റിസത്തിൻറെ ഉദാഹരണമായി കരുതുക ഇപ്പോൾ അടുത്തത് നോക്കാം അടുത്തതായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഡിപ്രീസിയേഷനെ കുറിച്ചാണ് ഡിപ്രീസിയേഷൻ എന്നത് ഫിക്സഡ് അസറ്റിൻറെ മൂല്യത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ഇപ്പോൾ നിങ്ങളിൽ മിക്കവർക്കും അറിയാം ഇപ്പോൾ അത്തരം വീഴ്ച ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കില്ല പക്ഷേ കോൺസെർവിറ്റിസം പ്രകാരം നമ്മൾ ആസ്തിയുടെ വില എടുക്കുന്നു നമ്മൾ ആസ്തിയുടെ പ്രതീക്ഷിത ആയുസ്സ് കണക്കിടുന്നു അതിന്റെ ചെലവ് അതിന്റെ ആയുസ്സിലേക്കായി വീതിക്കേണ്ടതാണ് അതിനാൽ നമ്മൾ എല്ലാ വർഷവും അസറ്റിന്റെ മൂല്യം ബാലൻസ് ഷീറ്റിൽ കുറച്ചു കൊണ്ട് പോകും അസറ്റ് പൂർണ്ണമായും തീരുന്നതുവരെ കാത്തിരിക്കില്ല നിങ്ങൾ യന്ത്രങ്ങൾ 10000 ന് വാങ്ങുന്നുവെന്ന് കരുതുക അതിന് 5 വർഷത്തെ ആയുസ്സ് ഉണ്ട് അതിന്റെ മൂല്യം നഷ്ടപ്പെടുന്നതിന് നമ്മൾ 5 വർഷം കാത്തിരിക്കില്ല എല്ലാ വർഷവും ഈ 10000 രൂപ 5 വർഷ കാലയളവിൽ വ്യാപിക്കും മൂല്യം 10000 ഉം കണക്കാക്കിയ ആയുസ്സ് 5 വർഷമാണ് അതിനാൽ 10000 രൂപയെ 5 വർഷത്തിലേക്കു വീതിക്കേണ്ടതാണ് അതായത് ഓരോ വർഷവും 2000 രൂപ ഓരോ വർഷവും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ചെയ്യുന്നു ഇവ രണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അതിനാൽ ഈ കോഴ്സിലും നമ്മൾ അവ ചർച്ചചെയ്യാൻ പോകുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഉദാഹരണത്തെക്കുറിച്ച് ചിന്തിക്കാം കോൺസെർവിറ്റിസം ഉപയോഗിക്കുന്ന മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ നിങ്ങളിൽ ചിലർ ശരിയായി ഊഹിക്കുന്നുവെന്നു കരുതുന്നു നമ്മൾ ഒരു ക്രെഡിറ്റ് വിൽപ്പന നടത്തുന്നുവെന്ന് കരുതുക തുക ഉപഭോക്താവിൽ നിന്ന് ഇനിയും ശേഖരിക്കാനായിട്ടില്ല അതിനാൽ നമ്മൾ അത് ബാലൻസ് ഷീറ്റിൽ ഡെബ്റ്ഴ്സ് അല്ലെങ്കിൽ റീസിവബിളായി കാണിക്കുന്നു ഇപ്പോൾ നമ്മളുടെ ഉപഭോക്താക്കളിൽ കുറച്ചുപേർ അവരുടെ കുടിശ്ശിക കൃത്യസമയത്ത് നൽകാതിരിക്കാനും ഒടുവിൽ അവർ പണം നൽകാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് അതിനാൽ ഇതിനായി ഒരു വ്യവസ്ഥ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടാകും ഇതിനെ സാധാരണയായി റിസർവ് ഫോർ ഡൌറ്റ്ഫുൾ ഡെബ്റ്റ് RDD എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ സംശയാസ്പദമായ കടങ്ങൾക്കായി കരുതിവയ്ക്കുക ഏതെങ്കിലും ഉപഭോക്താവ് ഏതെങ്കിലും കടക്കാരൻ പണമടയ്ക്കാൻ സാധ്യതയില്ലെങ്കിൽ നമ്മൾ ഉടനടി ഒരു പ്രൊവിഷൻ ശരിയാക്കും ഇതുപോലെയുള്ള മറ്റു ചില ഉദാഹരണങ്ങളും നമുക്ക് കാണാനാകും പക്ഷേ ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷനെ കുറിച്ച് നോക്കാം ഡിപ്രീസിയേഷൻ പ്രത്യേകിച്ചും ഉൽപാദനത്തിനോ സേവന വിതരണത്തിനോ വേണ്ടി ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഫിക്സഡ് അസ്സറ്റുകൾക്കാണ് സംഭവിക്കുന്നത് നമ്മൾ ഒരു അസറ്റ് ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് മൂല്യം നഷ്ടപ്പെടും നിങ്ങൾ ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിലും അതിൻ്റെ മൂല്യം കാല ക്രമേണ കുറയുന്നു അസ്സെറ്റിന്റെ ഒരു ഭാഗത്തിൻറെ മൂല്യം പതുക്കെ കുറയുന്നു ആ നഷ്ടം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൌണ്ടിലേക്കു മൂല്യം നഷ്ടപ്പെടുന്നതിൻറെ ചെലവ് ഈടാക്കേണ്ടതുണ്ട് ഇപ്പോൾ നിലവിലെ കാലയളവിലെ മൂല്യം നഷ്ടപ്പെടുന്ന ചിലവിന്റെ ഭാഗത്തെ ആ പ്രത്യേക കാലയളവിലേക്കുള്ള ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നു വിവിധ കാരണങ്ങളാൽ ഫിക്സഡ് അസ്സറ്റിന്റെ മൂല്യത്തിൽ കുറവുണ്ടാകുന്നു അത് കാലപ്പഴക്കം മൂലമാവാം അങ്ങനെ ഡിപ്രീസിയേഷനായി നമ്മൾ രേഖപ്പെടുത്തുന്ന മൂല്യത്തിൽ ക്രമാനുഗതവും നിരന്തരവുമായ ഇടിവ് സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻറെ പ്രധാന കാരണങ്ങൾ ചർച്ചചെയ്തു ആദ്യത്തേത് കാലപ്പഴക്കം ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ കാർ വാങ്ങി എന്ന് കരുതുക പക്ഷെ അത് നിങ്ങൾ ഉപയോഗിചിട്ടില്ല നിങ്ങൾ വാങ്ങിയത് 15 ലക്ഷത്തിൽ ഒരു വാഹനം എന്ന് കരുതുക 2 വർഷത്തേക്ക് അത് ഉപയോഗിച്ചിട്ടില്ല 2 വർഷത്തിന് ശേഷം അതിന്റെ മൂല്യം 15 ലക്ഷം ആയിരിക്കുമോ ഉത്തരം ഇല്ല കാരണം കാലക്രമേണ നിങ്ങൾ അത് ഉപയോഗിക്കാതിരുന്നാൽ പോലും അത് പഴയ വാഹനമായി മാറിയതിനാൽ അതിന്റെ മൂല്യം നഷ്ടപ്പെടും ഉപയോഗം കണക്കിലെടുക്കാതെ ഡിപ്രീസിയേഷന് ഒരു പ്രധാന കാരണം കാലപ്പഴക്കമാണ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഡിപ്രീസിയേഷൻ്റെ ഏറ്റവും വലിയ കാരണം കാലഹരണപ്പെടലാണ് കാരണം കൂടുതൽ മികച്ച ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ മെച്ചപ്പെട്ട സേവനങ്ങൾ എല്ലായ്പ്പോഴും ലഭ്യമാണ് അതിനാൽ ഉപയോഗപ്രദമായ ആയുസ്സ് തേയ്മാനത്തിലൂടെ നഷ്ടപ്പെടുന്നതിന് മുമ്പുതന്നെ കാലഹരണപ്പെടൽ കാരണം അതിൻ്റെ മൂല്യം നഷ്ടപ്പെടും ഏറ്റവും മികച്ച ഉദാഹരണം നമ്മുടെ മൊബൈൽ ഫോണുകളാണെന്ന് ഞാൻ കരുതുന്നു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ എല്ലാവരും മൊബൈൽ ഫോണുകൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയാം പഴയ ഫോൺ ഇപ്പോഴും ഉപയോഗശൂന്യമായിരിക്കില്ല പക്ഷേ പുതിയ ഫോൺ കൂടുതൽ മികച്ച യൂട്ടിലിറ്റികൾ നൽകിയേക്കാം ഹാർഡ്വെയറിന്റെയോ സോഫ്റ്റ്വെയറിന്റെയോ മികച്ച ലഭ്യത അനുസരിച്ച് കാലഹരണപ്പെടുന്നതിനാലാണ് ഒരാൾ ആസ്തികളെ വേഗത്തിൽ മാറ്റാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണെങ്കിൽ നമ്മളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഉള്ള നിരവധി ആപ്ലിക്കേഷനുകൾ നീക്കി അല്ലെങ്കിൽ പഴയ വെർഷനുകൾ നിലവിലില്ലാത്തതിനാൽ തുടർച്ചയായി അപ്ഡേറ്റുചെയ്യുന്നു മികച്ച വെർഷനുകളും പുതിയ വെർഷനുകളും ലഭ്യമാണ് ഇത് കാലഹരണപ്പെട്ടതു മൂലമാണ് നാലാമത്തെ കാരണം എക്സോഷൻ പോലുള്ള അസറ്റാണ് ഖനിയിൽ നിന്ന് ഒരു പ്രത്യേക മിനറൽ വേർതിരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മൂല്യം കുറയുന്നത് കാലപ്പഴക്കത്താലോ കാലഹരണപ്പെടലാലോ അല്ല മറിച്ച് പ്രധാനമായും ആ ഖനിയിലെ മിനറൽ കുറയുന്നു ആ മിനറലിൻറെ സ്റ്റോക്ക് കുറയുന്നു അതിനാൽ ഖനികൾ അല്ലെങ്കിൽ എണ്ണ കിണറുകൾ പോലുള്ള അസറ്റിന്റെ എക്സോഷൻ ഡിപ്രീസിയേഷന് ഒരു പ്രധാന കാരണമാണ് എല്ലാ കാരണങ്ങളും നിങ്ങൾക്ക് ശരിയായി രീതിയിൽ മനസ്സിലാകുന്നുണ്ടെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഡിപ്രീസിയേഷൻ കണക്കിടുന്നതിന്റെ ഒബ്ജെക്റ്റീവ്സ് ഇവയാണ് അപ്പോൾ നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നു ശരിയായ ലാഭം അറിയാൻ ആ കാലയളവിലെ ചെലവുകളും കണക്കാക്കേണ്ടതാണ് മാച്ചിങ് കോൺസെപ്റ്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ് ഫിക്സഡ് അസറ്റിന്റെ യഥാർത്ഥവും ന്യായവുമായ മൂല്യം അവതരിപ്പിക്കേണ്ടത് ഒരു പോലെ ആവശ്യമാണ് ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഫോൺ 20000 ന് വാങ്ങിയാൽ അതിന് 2 വർഷത്തേക്ക് ആയുസ്സുണ്ടെന്നു കരുതുക വർഷം 1 അവസാനിക്കുമ്പോൾ അതിന്റെ മൂല്യം 20000 ൽ നിന്ന് 10000 ആയി കുറയുന്നു എന്ന് വയ്ക്കാം ബാലൻസ് ഷീറ്റിൽ നമ്മൾ 20000 കാണിക്കുന്നത് തുടരുകയാണെങ്കിൽ അത് തെറ്റായ പ്രാതിനിധ്യമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രൊവിഷൻ ചെയ്യേണ്ടത് 20000 ത്തിൻറെ ഡിപ്രീസിയേഷൻ ഓരോ വർഷവും 10000 കുറയുന്നു എന്ന് വയ്ക്കാം അപ്പോൾ ഒന്നാം വർഷം ഡിപ്രീസിയേഷൻ 10000 രണ്ടാം വർഷം 10000 അതിനാൽ ഒന്നാമത്തെ വർഷത്തിൽ 10000 ത്തിനായി ഒരു പ്രൊവിഷൻ ചെയ്യും അങ്ങനെ മൂല്യം 20000 ൽ നിന്ന് 10000 ആയി കുറയുന്നു ഇത് ശരിയായതും ന്യായവുമായ മൂല്യമായിരിക്കും ഇപ്പോൾ മൂന്നാമത്തേത് ആസ്തികൾക്ക് റീപ്ലേസ്മെൻറ് ഫണ്ട് ശേഖരിക്കുക എന്നതാണ് 2 വർഷത്തിനുശേഷം 20000 ന് മറ്റൊരു മൊബൈൽ വാങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അത്രയും പണം നമ്മൾ നീക്കിവെക്കേണ്ടതുണ്ട്

അതിനായി നമ്മൾ ഓരോ വർഷവും 10000 മാറ്റിവെക്കുന്നു എന്ന് കരുതുക അങ്ങനെ 2 ആം വർഷാവസാനം നമ്മൾക്ക് ഡിപ്രീസിയേഷൻ സംഭവിച്ച ആസ്തികൾ റീപ്ലേസ്മെന്റ് ചെയ്യുന്നതിനായി മതിയായ പണം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഡിപ്രീസിയേഷൻ എങ്ങനെ കണക്കിടും കൃത്യമായ തുക കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് നടത്തുന്നു അതിനാൽ സാധ്യമായ ഏറ്റവും അടുത്ത തുക ലഭിക്കുന്നതിന് മൂല്യനിർണ്ണയത്തിൻറെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആദ്യത്തേത് ആസ്തിയുടെ വില കണക്കാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഒരു യന്ത്രം ഉൽപാദനക്ഷമവും കാര്യക്ഷമവുമായ രീതിയിൽ 4 വർഷത്തേക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് മൊത്തം 5 വർഷം ആയുസ്സുണ്ടാകാം പക്ഷേ അഞ്ചാം വർഷത്തിൽ ധാരാളം അപകടങ്ങൾക്കോ കൂടുതൽ അറ്റകുറ്റപ്പണികൾക്കോ സാധ്യതയുണ്ട് അതിനാൽ അഞ്ചാം വർഷത്തിൽ ഇത് ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിച്ചേക്കില്ല ഉപയോഗപ്രദമായ ആയുസ്സ് 4 വർഷത്തേക്ക് ഏറ്റവും ലാഭകരമായ രീതിയിൽ ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിച്ചേക്കാം പ്രതീക്ഷിത ആയുസ്സ് 5 ആണ് പക്ഷേ ഉപയോഗപ്രദമായ ആയുസ്സ് 4 ആയി കണക്കാക്കാം ഇപ്പോൾ നിർമ്മാതാക്കൾ നൽകിയ നിർണ്ണയവും സ്വന്തം അനുഭവവും ഒരു ആസ്തിയുടെ ഉപയോഗപ്രദമായ ആയുസ്സ് കണക്കാക്കാൻ ഉപയോഗിക്കുന്നു മൂന്നാമത്തേത് ഉപയോഗപ്രദമായ ആയുസ്സിൻറെ സമയത്തുള്ള ആക്രി വിലയാണ് നമ്മൾ 4 വർഷത്തേക്ക് മാത്രമാണ് യന്ത്രം ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് കരുതുക നാലാം വർഷത്തിന്റെ അവസാനത്തിൽ അത് മറ്റൊരാൾക്ക് സെക്കൻഡ് ഹാൻഡ് അസറ്റായി വിൽക്കാം അല്ലെങ്കിൽ ആക്രി ആക്കിയേക്കാം അതിൽ നിന്നും കുറച്ചു ആക്രി തുക ലഭിക്കും അതിനാൽ ആ ഉപയോഗപ്രദമായ ആയുസ്സിൻറെ അവസാനത്തിൽ വിൽക്കാൻ കഴിയുന്ന തുകയും പരിഗണിക്കപ്പെടും ഈ മൂന്ന് ഘടകങ്ങൾ ആദ്യം നിർണ്ണയിക്കുകയും ഇവയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കണക്കാക്കുകയും ചെയ്യുന്നു അടുത്തതായി ഡിപ്രീസിയേഷൻ കണക്കാക്കാൻ വിവിധ രീതികളുണ്ട് ഈ നാല് രീതികൾ വളരെയേറെ പ്രചാരമേറിയതാണ് ആദ്യത്തേത് സ്ട്രൈറ്റ് ലൈൻ രീതി എന്നിവയാണ് ഇപ്പോൾ നമുക്ക് ഇവ ഓരോന്നായി ചർച്ച ചെയ്യാം സ്ട്രൈറ്റ് ലൈൻ രീതി വളരെ ലളിതമാണ് നമ്മൾ ഉപയോഗപ്രദമായ ആയുസ്സു നിർണ്ണയിക്കുകയും ഡിപ്രീസിയേഷൻ ചെലവ് അതിന്റെ ഉപയോഗപ്രദമായ ആയുസ്സിലുടനീളം വ്യാപിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരു യന്ത്രം 10000 ന് വാങ്ങിയതാണെന്ന് കരുതുക ഇതിന് പ്രതീക്ഷിത ആയുസ്സ് 5 വർഷമാണ് എന്നാൽ പ്രതീക്ഷിത ഫലദായക ആയുസ്സ് 4 വർഷമാണ് 10000 വിലയും ആക്രി വില 2000 എന്നും കരുതുക 10000 മൈനസ് 2000 8000 ആണ് അതിനർത്ഥം 8000 എന്നത് 4 വർഷ കാലയളവിലെ ഡിപ്രീസിയേഷൻ കോസ്റ്റാണ് 8000 ഡിവൈഡഡ് ബൈ 4 അങ്ങനെ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ 2000 ആയിരിക്കും ഇത് എല്ലാ വർഷവും കോൺസ്റ്റന്റായിരിക്കും അതിനാലാണ് ഇതിനെ സ്ട്രൈറ്റ് ലൈൻ രീതി എന്ന് പറയുന്നത് ഇതാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കാനുള്ള ഫോർമുല ഡിപ്രീസിയേഷൻ അങ്ങനെ നമ്മൾക്ക് ആനുവൽ ഡിപ്രീസിയേഷൻ ലഭിക്കുന്നു ഇതിൽ ആസ്തിയുടെ ഉപയോഗപ്രദമായ ആയുസ്സു മുഴുവൻ ഫിക്സഡ് ആയി നിലനിൽക്കുന്നു ഒരു ഉദാഹരണം നമ്മുക്ക് നോക്കാം ഇത് വളരെ ലളിതമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിൽ തന്നെ കണക്കാക്കാം യന്ത്രത്തിൻറെ വില 18000 ഇൻസ്റ്റാളേഷൻ ചാർജുകൾ 2000 ഉപയോഗപ്രദമായ ആയുസ്സ് 5 വർഷമാണ് സ്ക്രാപ്പ് മൂല്യം പൂജ്യം ആണെന്ന് നമ്മൾ അനുമാനിക്കാം 18000 പ്ലസ് 2000 എത്രയാണ് അങ്ങനെ മൊത്ത ചെലവ് 20000 ഈ തുക 5 വർഷത്തെ കാലയളവിലേക്കു വീതിക്കേണ്ടതാണ് 20000 ഡിവൈഡഡ് ബൈ 5 അതായത് പ്രതിവർഷം 4000 ഡിപ്രീസിയേഷൻ ഇതു എല്ലാവർക്കും കണക്കുകൂട്ടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ നമുക്ക് അടുത്ത രീതിയിലേക്ക് പോകാം രണ്ടാമത്തേതു റെഡ്യൂസ്ഡ് ബാലൻസ് രീതി ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു നിശ്ചിത വാർഷിക തുക കണക്കാക്കുന്നതിനുപകരം ഒരു നിശ്ചിത ശതമാനം അല്ലെങ്കിൽ ഒരു നിശ്ചിത നിരക്ക് കണക്കാക്കുന്നു എല്ലാ വർഷവും തുടക്കത്തിൽ യന്ത്രസാമഗ്രികളുടെ മൂല്യത്തിൽ ഒരു നിരക്ക് ഈടാക്കുകയും ആ വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ കണക്കാക്കുകയും ചെയ്യുന്നു ഈ രീതി മൂലം ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് എങ്ങനെ ഡിപ്രീസിയേഷൻ WDV ഡിപ്രീസിയേഷൻ റേറ്റ് ഇനി എന്താണ് WDV റിട്ടൺ ഡൌൺ വാല്യൂ അക്ക്വിസിഷൻ കോസ്റ്റ് ഡിപ്രീസിയേഷൻ നമ്മളുടെ മുൻ ഉദാഹരണത്തിലൂടെ പോയാൽ യന്ത്രസാമഗ്രികളുടെ വില 18000 ആയിരുന്നു ഡിപ്രീസിയേഷൻ റേറ്റ് 10 ശതമാനം ആണെന്ന് കരുതുക അതായത് 1800 എന്നത് 1 വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷൻ ആയിരിക്കും എന്നാൽ 2 ാം വർഷത്തിൽ 18000 ന് നമ്മൾ 10 ശതമാനം ഈടാക്കില്ല നമ്മൾ ആദ്യം ചെയ്യുന്നത് 18000 മൈനസ് 1800 ചെയ്യും അതിനർത്ഥം മെഷീന്റെ വിലയോ യന്ത്രത്തിന്റെ മൂല്യമോ എന്നറിയപ്പെടുന്ന WDV തന്നെ കുറയുന്നു അത് ഇപ്പോൾ 16200 ൽ എത്തി അതിൽ നമ്മൾ 10 ശതമാനം ഈടാക്കുന്നു അതിനാൽ രണ്ടാം വർഷത്തേക്കുള്ള ഡിപ്രീസിയേഷനായി 1620 ലഭിക്കും ഈ രീതിയുടെ പ്രാധാന്യം ഡിപ്രീസിയേഷൻ ചാർജ് ഒരു നിശ്ചിത കാലയളവിൽ ഒരേപോലെയല്ല കാലപഴക്കത്തിൽ നിങ്ങളുടെ റിപ്പയർ ചെലവ് ഉയരുന്നതിനാൽ മുൻ വർഷത്തിൽ കൂടുതൽ ഡിപ്രീസിയേഷൻ ഈടാക്കുകയും പിന്നീടുള്ള വർഷങ്ങളിൽ കുറഞ്ഞ ഡിപ്രീസിയേഷൻ ഈടാക്കുകയും ചെയ്യുന്നത് നല്ലതാണ് അതിനാൽ ഇതാണ് ഫോർമുല ഡിപ്രീസിയേഷൻ WDV ഡിപ്രീസിയേഷൻ റേറ്റ് വളരെ ലളിതമായ ഒരു ഉദാഹരണം നോക്കാം യന്ത്രസാമഗ്രികളുടെ വില 50000 സ്ക്രാപ്പ് മൂല്യം 5000 ഉപയോഗപ്രദമായ ജീവിതം 10 വർഷവും ഡിപ്രീസിയേഷൻ റേറ്റ് 15 ശതമാനവും വയ്ക്കാം ആദ്യത്തെ 2 വർഷത്തേക്ക് ഡിപ്രീസിയേഷൻ കണക്കാക്കാം ആദ്യ വർഷത്തിൽ 50000 ത്തിന്റെ 15 ശതമാനം 7500 ആണ് ഇപ്പോൾ രണ്ടാം വർഷത്തിൽ 50000 ന് 15 ശതമാനം ഈടാക്കില്ല ആദ്യം നമ്മൾ 50000 മൈനസ് 7500 എടുക്കും അതിനാൽ 42500 WDV ആയിരിക്കും ഈ തുകയിൽ 15 ശതമാനം ഈടാക്കും

അതിനാൽ വർഷം 1 ഡിപ്രീസിയേഷൻ 7500 വർഷം 2 ഇത് 6350 വർഷം 3 ഇത് ഇനിയും കുറയ്ക്കും ഓരോ വർഷവും ഡിപ്രീസിയേഷൻ കുറയുന്നു അതിനാലാണ് ഇതിനെ റെഡ്യൂസിങ് ബാലൻസ് രീതി എന്ന് വിളിക്കുന്നത് അങ്ങനെ ആദ്യ രണ്ട് രീതികൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അവയെ താരതമ്യം ചെയ്യുക സ്ട്രൈറ്റ് ലൈൻ രീതി മറ്റും റിട്ടൺ ഡൌൺ രീതി അടുത്ത സെഷനിൽ നമ്മൾ അവയെ ക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യും നമസ്കാരം നന്ദി